ഹലോ സുന്ദര രാമസ്വാമിയുടെ റീഫ്ലവറിങ് എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മുൻ സെഷനിലെ പോലെ ഈ സെഷനിലും ഈ ചെറുകഥയിലെ നിർദ്ദിഷ്ട തീമുകൾക്കുള്ള പ്ലോട്ട് ഞാൻ വായിക്കുന്നു ഈ കഥയിലെ വിവിധ പ്രചോദനങ്ങളെക്കുറിച്ചും ഒപ്പം നിരവധി കഥാപാത്രങ്ങളെക്കുറിച്ചും ഇതിവൃത്തത്തിന്റെ വിശകലനം വായനക്കാരോട് കൂടുതൽ എന്ത് പറയുന്നു എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ മുമ്പത്തെ സെഷനിൽ ഈ കഥയിലെ രണ്ട് പ്രധാന പ്രതിസന്ധികളെക്കുറിച്ച് ഞാൻ നോക്കിയിരുന്നു ആദ്യത്തെ പ്രതിസന്ധി എന്നത് കടക്കാരൻ റൌത്തറിന് കടം നൽകാൻ വിസമ്മതിച്ചു വസ്ത്രങ്ങൾ കടമായി നൽകാൻ വിസമ്മതിച്ചു എന്നതാണ് രണ്ടാമത്തെ പ്രതിസന്ധി എന്നത് അദ്ദേഹത്തിന്റെ വീട് ലേലം ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു ഈ സെഷനിൽ ഞാൻ ഈ കഥയിലെ അവസാനത്തെ പ്രതിസന്ധി നോക്കാൻ പോകുന്നു അത് കാൽക്കുലേറ്റർ കാരണം ഉടലെടുത്ത പ്രതിസന്ധിയെ പറ്റി ആണ് ഈ നൂതനമായ മെറ്റീരിയലും ഈ കാൽക്കുലേറ്ററും ഈ കഥയിലെ അന്തിമവും അവസാനത്തെതുമായ പ്രതിസന്ധിക്ക് സംഭാവന ചെയ്യുന്നു വീട് ലേലം ചെയ്യുന്നത് മുഖാന്തരം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിഷമത്തെക്കാൾ കൂടുതൽ ഇത് റൌത്തറിനെ ശരിക്കും പിടിച്ച് കുലുക്കുന്നു വാസ്തവത്തിൽ അവന് ഇതുവരെ ഉണ്ടായിരുന്ന അധികാര സ്ഥാനത്ത് നിന്ന് അത് അവനെ താഴെയിറക്കുന്നു എല്ലായിടത്തും അദ്ദേഹത്തിന് ഈ വലിയ ഈഗോ ഉണ്ടായിരുന്നു കാരണം കടയിലെ തന്റെ ഉയർന്ന മൂല്യത്തെക്കുറിച്ച് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു ചിത്രത്തിലേക്ക് കാൽക്കുലേറ്റർ കടന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഈ മെറ്റീരിയൽ ഈ ഇലക്ട്രോണിക് ഉപകരണം വഴി താൻ ആ സിംഹാസനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എന്ന് അയാൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ നമ്മൾ മെഷീന്റെ ഐഡന്റിറ്റിയും അതിനെ എങ്ങനെ വിവരിക്കുന്നുവെന്നും നോക്കുകയാണെങ്കിൽ റൌത്തറുമായി ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ വിവരിക്കുന്നുവെന്ന് കാണേണ്ടത് വളരെ രസകരവും പ്രധാനപ്പെട്ടതുമാണ് വാസ്തവത്തിൽ മെഷീനെ മനുഷ്യനുമായി താരതമ്യം ചെയ്യുന്നത് അതിന്റെ മേന്മയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആണ് സ്ലൈഡിലെ രണ്ടാമത്തെ പോയിന്റ് നോക്കുക യന്ത്രത്തെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞപ്പോൾ കാൽക്കുലേറ്ററിനെ കുറിച്ച് ആദ്യമായി അറിഞ്ഞപ്പോൾ അമ്മ കടയുടമയുടെ ഭാര്യ ചോദിച്ച ചോദ്യമാണിത് അവൾ ചോദിക്കുന്നു അവർ റൌത്തറിന്റെ തലച്ചോറിനെ ഒരു യന്ത്രമാക്കി മാറ്റിയോ കണക്കുകൂട്ടൽ നടത്തുന്നതിൽ പരമോന്നതനായ റൌത്തർ ഒഴികെ അവൾക്ക് ഇവിടെ മറ്റൊന്നും താരതമ്യം ചെയ്യാനില്ലാത്തതിനാൽ അവൾ ചോദിച്ച ചോദ്യമാണിത് ഈ സ്ലൈഡിലെ അവസാന പോയിന്റ് ഈ ആൺകുട്ടി സംസാരിക്കുകയോ വിവരിക്കുകയോ ചെയ്യുന്നു റൌത്തറിന് മൂന്ന് അധിക ഞരമ്പുകൾ ഉള്ളതുപോലെ കാൽക്കുലേറ്ററിന് അതിനുള്ളിൽ അധിക നാഡികളുണ്ടെന്ന് അവൻ കരുതുന്നു അത് അവനെ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ അവനെ ഈ അതിവിശിഷ്ഠ കണക്കുകൂട്ടൽ മനുഷ്യനാക്കുന്നു അതിനാൽ യന്ത്രത്തിന്റെ ഐഡന്റിറ്റിയും അതിന്റെ വിവരണവും ഒപ്പം മനുഷ്യരുമായുള്ള താരതമ്യവും വളരെ രസകരമായ ഒരു കാര്യം നമ്മോട് പറയുന്നു കാൽക്കുലേറ്റർ സമൂഹത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് യന്ത്രവും മനുഷ്യനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ ശ്രേഷ്ഠനായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഈ നിർദ്ദിഷ്ട കഥയിൽ കാൽക്കുലേറ്റർ പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞാൽ ധാരാളം സാധാരണ കാര്യങ്ങളും പ്രാധാന്യമർഹിക്കുന്നു മുമ്പ് റൌത്തർ മാത്രമേ അക്കങ്ങളിൽ ശ്രേഷ്ഠനായിരുന്നുള്ളൂ സംഖ്യകൾ കണക്കാക്കുന്നതിൽ അസാധാരണമായിരുന്നു കൂടാതെ സംഖ്യകളുടെ തുക കണക്കുകൂട്ടുന്നതിൽ അങ്ങേയറ്റം കാര്യക്ഷമവുമായിരുന്നു ഇപ്പോൾ മെഷീൻ ഒരിക്കൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണക്കാരും കാര്യക്ഷമമായിത്തീരുന്നു തുക കണക്കുകൂട്ടുന്നതിൽ എല്ലാവരും മികച്ചവരാണ് കടയിലെ സഹായികളിൽ ഒരാളായ ഗോമതി മൂന്നാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ശുചികരണ ജോലികൾ ചെയ്യുന്ന ഒരാൾ കണക്ക് കൂട്ടലുകൾ ചെയ്യാനുള്ള യന്ത്രം അവൾക്ക് ലഭിക്കുമ്പോൾ അവൾക്ക് പോലും ശരിയായ ഉത്തരങ്ങൾ ലഭിക്കുന്നു അവൾ പറയുന്നു എനിക്ക് പോലും എല്ലാം ശരിയായി ലഭിക്കുന്നു ഈ യന്ത്രം താത്തയേക്കാൾ തന്ത്രശാലിയാണെന്ന വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമാണ് അവൾ പറയുന്നത് തന്ത്രശാലി എന്നത് ഇവിടെ ഉപയോഗിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാക്കാണ് ഒപ്പം ഈ വാക്കിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ തന്ത്രശാലി എന്ന വാക്കിന്റെ നിഘണ്ടു നിർവചനം എന്താണ് കേംബ്രിഡ്ജ് നിഘണ്ടു നമ്മോട് പറയുന്നത് അത് എന്തെങ്കിലും ആസൂത്രണം ചെയ്യുന്നതിൽ മിടുക്കനായിരിക്കുന്നതിന്റെ ഗുണനിലവാരമോ വൈദഗ്ധ്യമോ ആണ് അതുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നേടാം അതിനാൽ ഇവിടെ കൌശലം എന്നത് കരകൌശലത്തെയും കൃത്രിമത്വത്തെയും സൂചിപ്പിക്കുന്നു അതേസമയം അവൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് ഒരുപക്ഷേ മിടുക്ക് എന്നാണ് ഈ യന്ത്രം ഒരുപക്ഷേ താത്തയേക്കാൾ കൂടുതൽ ബുദ്ധിമാനാണെന്ന് അവൾ പറയാൻ ആഗ്രഹിക്കുന്നു അതാണ് ഒരുപക്ഷേ അവൾ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അവസാനം അവൾ തന്ത്രശാലി എന്ന ഈ വാക്ക് ഉപയോഗിക്കുന്നു നിങ്ങൾ ഗോമതിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവൾ വാക്കുകൾ കൂട്ടികലർത്തുന്നതിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് എന്റെ മനസ്സിൽ കടന്ന് വരുന്ന സംഭവം എന്നത് അവൾ കഥയുടെ ഒരു ഘട്ടത്തിൽ കൂട്ടികലർത്തുന്ന നിമിഷങ്ങൾ 536 ആണ് ഇത്രയും കൂട്ടികലർത്തിയിട്ടും വാക്കുകളുടെ തിരഞ്ഞെടുപ്പിലുള്ള ഈ ആശയക്കുഴപ്പം റൌത്തറിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു കൂട്ടം അനന്തരഫലങ്ങൾ കൌശലം നിർദ്ദേശിക്കുന്നു അവയിൽ ചിലത് നമുക്ക് സംക്ഷിപ്തമായി നോക്കാം ഗോമതിയുടേയും റൌത്തേറിന്റേയും വിദ്യാഭ്യാസ പശ്ചാത്തലം ഇതാണ് ആൺകുട്ടി പറയുന്നത് റൌത്തർ മൂന്നാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അത് കടയിൽ തൂക്കുകയും വൃത്തിയാക്കുന്ന ജോലി ചെയ്തിരുന്ന ഗോമതിയേക്കാൾ രണ്ട് ഗ്രേഡുകൾ കുറവാണ് അതിനാൽ വിദ്യാഭ്യാസത്തിന് ഗണിതശാസ്ത്ര നൈപുണ്യത്തിലെ മേന്മയുമായി യാതൊരു ബന്ധവുമില്ല കാരണം ഗോമതിയും റൌത്തറും മൂന്നാം ക്ലാസും അഞ്ചാം ക്ലാസും വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാൽ താത്ത അദ്ദേഹത്തിന്റെ മികച്ച കണക്കുകൂട്ടലുകൾ കാരണം കണക്കുകൂട്ടലുകൾ ചെയ്യുന്നതിൽ ആത്യന്തിക അധികാരിയായി അദ്ദേഹത്തിന്റെ പ്രതിഭ ഉയർന്നുവന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം അവൻ തന്റെ മേന്മയിൽ സ്വയം അഭിമാനിക്കുന്നു എന്നാൽ കാൽക്കുലേറ്റർ പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞാൽ റൌത്തർ തന്റെ സമൂഹത്തിലെ മറ്റ് അംഗങ്ങൾക്ക് തുല്യനാകും ഗോമതി പോലും താത്തയെ പോലെ മികച്ചതാണ് അവൾ പോലും കണക്കുകൂട്ടലിന്റെ കാര്യത്തിൽ റൌത്തറിന് തുല്യമാണ് വാസ്തവത്തിൽ കാൽക്കുലേറ്റർ വൃദ്ധനേക്കാൾ താത്തയേക്കാൾ തന്ത്രശാലിയാണെന്ന് ഗോമതി നിർദ്ദേശിക്കുമ്പോൾ പോലും ഇത് യന്ത്രത്തെ മികവുറ്റതാക്കുന്ന ഒരു കൂട്ടം ആശയങ്ങൾ അവതരിപ്പിക്കുന്നു അത് മനുഷ്യനേക്കാൾ യന്ത്രത്തിന് കൂടുതൽ ക്രെഡിറ്റ് നൽകുന്നു ആ പാത യഥാർത്ഥത്തിൽ ആഖ്യാനത്തിൽ എടുക്കുന്നു കാരണം താഴെ പറയുന്ന കമന്റുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഗോമതി പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് താത്ത എന്നാണ് കാരണം റൌത്തർ തന്റെ മനസ്സിൽ ചെയ്യുന്ന കണക്കുകൂട്ടലുകൾ അവൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു അതിനാൽ അവൾ പറയുന്നു വൃദ്ധൻ ചെയ്ത കണക്കുകൂട്ടലുകൾ ശരിയാണെന്ന് അവൾ അംഗീകരിക്കുന്നു അത് വൃദ്ധനെ ശരിക്കും ഞെട്ടിക്കുന്നു "നിങ്ങൾ പറയുന്നു ഞാൻ ശരിയാണെന്ന് ഞാൻ എപ്പോഴും ശരിയാണ് " അതാണ് അവന്റെ മനസ്സിലുള്ളത് അതായത് ആർക്കും അവനെ ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അവൻ ആത്യന്തിക അധികാരിയാണ് എന്നാൽ ഇപ്പോൾ യന്ത്രം പ്രാബല്യത്തിൽ വന്നു യന്ത്രം കാര്യങ്ങൾ പരിശോധിക്കുന്ന ആത്യന്തിക അധികാരിയായി മാറുന്നു അതിനാൽ കാൽക്കുലേറ്റർ എന്ന ഈ യന്ത്രം റൌത്തറിനെ ക്രമേണ മറികടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ചെറുപ്പക്കാരനും പ്രായമായവർക്കും വിദ്യാസമ്പന്നർക്കും വിദ്യാഭ്യാസമില്ലാത്തവർക്കും അവരുടെ കൈകളിലുള്ള അടിസ്ഥാന സാക്ഷരത ഉപയോഗിച്ച് കാൽക്കുലേറ്ററിന്റെ സഹായത്തോടെ കണക്കുകൂട്ടലുകൾ ചെയ്യാൻ കഴിയും ഈ ആശയങ്ങളുടെ കൂട്ടത്തിന്റെ ഏറ്റവും പ്രധാന കാര്യം ഇതാണ് കടയിൽ റൌത്തറിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒരു വലിയ പവർ ഷിഫ്റ്റ് ഉണ്ട് കാരണം കടയിൽ അവരിൽ ആർക്ക് വേണമെങ്കിലും കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണക്കുകൂട്ടലുകൾ ചെയ്യാനും ബിൽ കൃത്യമായി ചെയ്യാനും കഴിയും ഇപ്പോൾ ഗോമതി റൌത്തറിന്റെ കണക്കുകൂട്ടലുകൾ പരിശോധിക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെന്ന് റൌത്തറിന് അറിയില്ലായിരുന്നു അതിനാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് താത്ത എന്ന് അവൾ പറയുമ്പോൾ അവളുടെ തലച്ചോർ ഉപയോഗിച്ച് അവൾ അത് പടിപടിയായി ചെയ്യുന്നുവെന്ന് അവൻ കരുതുന്നു അവൻ അവളെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്കായി വേഗത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്ധരണി ഇതാണ് റൌത്തർ അവൾക്ക് ഒരു കണക്ക് കൂട്ടാൻ നൽകി ഗോമതി ശരിയായ ഉത്തരം നൽകി അവൻ അവൾക്ക് ഒന്നിന് പുറകെ ഒന്ന് കണക്കുകൂട്ടാനായി നൽകി ഓരോ തവണയും അവൾക്ക് ശരിയായ ഉത്തരം ലഭിച്ചു റൌത്തറിന്റെ മുഖം വിളറി അവന് അവിടെ മത്സരം അംഗീകരിക്കാൻ കഴിയില്ല അവൻ പറയുന്നു പ്രിയ ദൈവമേ ഞാൻ വളരെ മന്ദബുദ്ധിയാണ് എനിക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവൻ പിറുപിറുത്തു ഒരു ചെറിയ പെൺകുട്ടിക്ക് അവനുമായി എങ്ങനെ മത്സരിക്കാനാകും എന്നും കണക്കുകൂട്ടൽ ശരിയായി ചെയ്യാൻ കഴിയുമെന്നും അയാൾക്ക് മനസ്സിലാകുന്നില്ല അവൾ ഉടനെ പറയുന്നു ഞാൻ കണക്കുകൂട്ടലുകൾ ചെയ്യുന്നില്ല താത്ത ഗോമതി പറഞ്ഞു "യന്ത്രമാണ് കണക്കുകൂട്ടലുകൾ ചെയ്യുന്നത്" അവൾ കാൽക്കുലേറ്റർ അവന്റെ കൈകളിൽ തിരുകി കാൽക്കുലേറ്റർ കൈകളിൽ എടുത്തപ്പോൾ റൌത്തറിന്റെ കൈകൾ വിറച്ചു അവന്റെ വിരലുകൾ വിറച്ചു അവൻ കാൽക്കുലേറ്ററിന്റെ മുൻഭാഗത്തും അതിനുശേഷം പിന്നിലും സ്പർശിച്ചു അതിനാൽ അവൻ ഈ സാധനത്തെ തൊട്ട് അനുഭവിക്കാൻ ശ്രമിക്കുന്നു അവൻ കാൽക്കുലേറ്ററിന്റെ മുൻഭാഗത്തിന്റെയും പിൻഭാഗത്തിന്റെയും ഉപരിതലത്തിൽ സ്പർശിക്കുന്നു കാരണം അവൻ ഒരു അന്ധനാണെന്നും അവൻ സാധനങ്ങളെയും ആളുകളെയും മനസ്സിലാക്കുന്നത് സ്പർശിക്കുന്നതിലൂടെ ആണ് എന്നും നാം ഓർക്കേണ്ടതുണ്ട് സമൂഹത്തിലെ ആരെയെങ്കിലും അവരുടെ വ്യക്തിത്വവും സ്ഥാനവും മനസ്സിലാക്കുന്നതിനായി അവൻ സ്പർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വീണ്ടും ഒരു പഴയ രംഗവുമായി നമുക്ക് ഉടൻ അതിനെ ബന്ധിപ്പിക്കാൻ കഴിയും അത് അംബിയാണ് അമ്പി റൌത്തറിന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അയാൾ അവനോട് അടുത്ത് വരാൻ ആവശ്യപ്പെടുന്നു അവനെ മനസ്സിലാക്കാനും സ്വാഗതം ചെയ്യാനും സംസാരിക്കാനുമായി അവൻ അവന്റെ മുഖത്ത് സ്പർശിക്കുന്നു അതിനാൽ അവൻ ഈ കാൽക്കുലേറ്ററിലും അതുതന്നെ ചെയ്യുന്നു അവൻ പൂർണ്ണമായും ദിശാബോധം ഇല്ലാത്തവൻ ആയി മാറി എനിക്ക് ഈ കാൽക്കുലേറ്റർ ആവശ്യമില്ല നീ വെച്ചുകൊൾക എന്ന് അവൻ പറയുന്നു ഈ കഥയിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് അത് അതിനാൽ നമ്മൾ ഈ ഉദ്ധരണിയിലേക്ക് നോക്കി വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗോമതി അവനെ മറികടക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു അവന് അത് സഹിക്കാൻ കഴിയില്ല ഒരു ചെറുപ്പക്കാരിക്ക് അവനെ മറികടക്കാൻ കഴിയുന്ന അവനെക്കാൾ ബുദ്ധിമാനായിരിക്കുന്ന സാഹചര്യം ആ സന്ദർഭം അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ അവൻ അധികാരശ്രേണിയുടെ മുകളിലാണ് മാളിക മുകളിലാണ് അവൻ അവിടെ മറ്റൊരു മത്സരം സമ്മതിക്കുകയോ സ്വാഗതം ചെയ്യുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല ഈ യന്ത്രം അവനെ താഴെയിറക്കാൻ വന്ന ഒരു പുതിയ ഉപകരണമാണ് അവൻ അത് ഇഷ്ടപ്പെടുന്നില്ല അവൻ അത് സ്വീകരിക്കുന്നില്ല അവൻ അത് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ അവൻ മെഷീൻ തിരികെ നൽകുന്നു എന്നിട്ട് ഭയങ്കര നിശബ്ദനായിത്തീരുന്നു അതിനാൽ ഈ ഉദ്ധരണിയുടെ വായനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ധാരണ എന്ന് പറയുന്നത് ഈ കടയ്ക്ക് ചുറ്റും ഒരു ഗണിതശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു വ്യക്തിയാണ് അയാൾ അത് വളരെ സ്വാർത്ഥമാണ് അതേ സമയം ഒരു കുട്ടിത്വം പോലുള്ള മനോഭാവം അത്തരം ആഗ്രഹങ്ങളിൽ ഉണ്ട് ഓക്കേ അപ്പോൾ കാൽക്കുലേറ്റർ കൊണ്ടുവന്ന പ്രതിസന്ധിയുടെ ആഘാതം എന്താണ് ചിത്രത്തിലേക്ക് കാൽക്കുലേറ്റർ വന്നുകഴിഞ്ഞാൽ റൌത്തർ പതിവായി ഷോപ്പിലേക്ക് വരുന്നത് തുടർന്നു പക്ഷേ അതിനുശേഷം നടന്ന് പോകുന്ന ശവം പോലെ കാണപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചിരി സന്തോഷം പ്രതിവിധി കളിയാക്കൽ പരിഹാസം എന്നിവയെല്ലാം അവനിൽ നിന്ന് എടുത്തുകളഞ്ഞതുപോലെ കാണപ്പെടുന്നു അവന്റെ ശബ്ദം മന്ദഗതിയിലായിരുന്നു അവന്റെ ശരീരം പോലും മെലിഞ്ഞതായി കാണപ്പെട്ടു ബില്ലുകൾ അടിക്കാൻ അപ്പ അവനോട് ആവശ്യപ്പെടുന്നത് നിർത്തി അതിനാൽ ആധുനികതയുടെ ഈ കണ്ടുപിടിത്തം കൊണ്ടുവന്ന ശാരീരികവും വൈകാരികവുമായ സ്വാധീനം റൌത്തറിന്റെ മനസ്സിലും വ്യക്തിയിലും വ്യക്തമായി കാണാം അതുകൊണ്ടുള്ള ഉടനടി ആഘാതം എന്ന് പറയുന്നത് കടയുടമ കടയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത വസ്തുക്കളുടെ കണക്കുകൂട്ടലുകൾ നടത്താൻ അവനോട് ആവശ്യപ്പെടുന്നത് നിർത്തി അതിനാൽ യന്ത്രം അവനെ പൊള്ളയായി മാറ്റുന്നു അത് അവനെ ശൂന്യമാക്കുന്നു അത് അവനെ നിർജീവനാക്കുന്നു ശാരീരികമായി പോലും അവൻ ക്ഷീണിതനായിത്തീരുന്നു ആത്മാവും പോയി എന്ന് നമുക്ക് വ്യക്തമായി കാണാം റൌത്തറിന്റെ ആത്മാവ് ചുട്ട മറുപടി പരിഹാസ്യമായ സംസാരം കളിയാക്കൽ അദ്ദേഹം നടത്തുന്ന പരിഹാസ്യമായ പരാമർശങ്ങൾ ചിരി സന്തോഷം അവന്റെ ജീവിതത്തിലെ സന്തോഷം എന്നിവയെക്കുറിച്ചുള്ള ഈ ആത്മാവ് ഇല്ലാതായി ഈ ആധുനിക ഉപകരണം മനുഷ്യന്റെ ആത്മാവിനെ അവനിൽ നിന്ന് എടുത്തുകളഞ്ഞു അവൻ കടയിൽ പ്രവർത്തനം നിർത്തുന്നു അവൻ ഇനി തുണിക്കടയ്ക്ക് ഉപയോഗപ്രദമല്ല അതിനാൽ ബന്ധങ്ങൾ വളരെ വ്യക്തമാണ് ഈ പ്രതിസന്ധിയുടെ തീമാറ്റിക് പ്രസക്തിയും വളരെ വ്യക്തമാണ് യന്ത്രത്തിന്റെ വരവ് റൌത്തറിന്റെ മാനുഷിക മനോഭാവത്തെ നശിപ്പിക്കുന്നു അത് വളരെ പ്രതീകാത്മകമാണ് ഈ കഥ വായനക്കാർക്ക് നൽകുന്ന വളരെ പ്രതീകാത്മക സന്ദേശമാണ് അതായത് യന്ത്രങ്ങളുടെ കണ്ടുപിടിത്തം മനുഷ്യമനസ്സിനെ തകരാറിലാക്കും അവർക്ക് മനുഷ്യരെ മാറ്റിസ്ഥാപിക്കാൻ കഴിയും അവർക്ക് അവയെ ഉണ്ടാക്കാൻ കഴിയും അവരെ പാർശ്വവത്കരിക്കാൻ കഴിയും അവരെ പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയും റൌത്തറിനെക്കുറിച്ചുള്ള കഥയിൽ അതാണ് ഈ ഘട്ടത്തിലെ അനന്തരഫലം മറ്റൊരു കാര്യം അത് ഈ വൃദ്ധനിൽ നിന്നും ആത്മവിശ്വാസം എടുത്ത് കളയുന്നു എന്നതാണ് അവൻ മന്ദഗതിയിലാകുന്ന രീതി നോക്കുക തുടക്കത്തിൽ ഉണ്ടായിരുന്നതുപോലെ അവനെക്കുറിച്ച് യഥാർത്ഥ ആത്മവിശ്വാസമില്ല ആദ്യത്തെ പ്രതിസന്ധി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ആദ്യ പ്രതിസന്ധിക്ക് ശേഷവും അവൻ ജോലിയിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ചപ്പോൾ പോലും റൌത്തറിന് വളരെ ആത്മവിശ്വാസമുണ്ടായിരുന്നു കൊച്ചുകുട്ടി അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ ഒരു മുതലാളിയെപ്പോലെ അവൻ താമസിക്കുന്ന മുറിയുടെ മധ്യഭാഗത്ത് ഇരുന്നു എന്നിട്ട് അയാൾ ഈ കുട്ടിയെ അകത്തേക്ക് ക്ഷണിക്കുന്നു അതിനാൽ അവിടെ അധികാരം ഉണ്ട് അവിടെ ആത്മവിശ്വാസമുണ്ട് അവന്റെ മൂല്യത്തെ കുറിച്ചും സമൂഹത്തിൽ അവന്റെ സ്ഥാനത്തെ കുറിച്ചും പൂർണ്ണമായ അറിവുണ്ട് ഈ അന്തിമ പ്രതിസന്ധിയിൽ അത് പൂർണ്ണമായും ഇല്ലാതായി അവൻ തന്റെ ചലനങ്ങളിൽ വളരെ മന്ദഗതിയിലാകുമ്പോൾ അവൻ പ്രതികരിക്കുന്ന രീതിയും ഒപ്പം അവൻ മടിക്കുന്നു കാരണം അയാൾക്ക് ഇനി കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പില്ല അതിനാൽ ആ ആത്മബോധവും ഒപ്പം ആർക്കുവേണ്ടിയും ഗണിതം ചെയ്യാൻ കഴിയുന്ന ഈ യന്ത്രം അവതരിപ്പിച്ചതിലൂടെ അവന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം എടുത്തുകളയപ്പെട്ടു അതിനാൽ അവൻ ഇനി തന്റെ ചുറ്റുപാടുകൾക്കെല്ലാം അധിപനല്ല വീട്ടിലോ തുണിക്കടയിലോ അവൻ ഇനി യജമാനനല്ല കാരണം അവന്റെ ജീവിതലക്ഷ്യം നഷ്ടപ്പെട്ടു ഓക്കേ അതിനാൽ നമ്മൾ ഇപ്പോൾ പ്രതിസന്ധിയെ എങ്ങനെയാണ് കണ്ടത് കഥയിൽ മൂന്ന് പ്രധാന പ്രതിസന്ധികൾ നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രതിസന്ധി വസ്ത്രങ്ങൾ കടമായി വാങ്ങുന്നതിനെക്കുറിച്ചും കടയുടമ അദ്ദേഹത്തിന് കടം നൽകാൻ വിസമ്മതിക്കുന്നതുമാണ് അതിനുശേഷം റൌത്തർ കോപത്തോടെ വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് അവനെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നു കാരണം ഇത് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു പതിവ് ആചാരമായി കാണപ്പെടുന്നു അതിനാൽ അതാണ് ആദ്യത്തെ പ്രതിസന്ധി രണ്ടാമത്തെ പ്രതിസന്ധി വീടിനെക്കുറിച്ചാണ് അത് എങ്ങനെയാണ് ലേലം ചെയ്യുന്നത് എന്നിട്ട് കടയുടമ കടന്ന് വന്ന് അവനെ എങ്ങനെ രക്ഷിക്കുന്നു അവനെ വീണ്ടും തുണിക്കടയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു അതാണ് രണ്ടാമത്തെ പ്രതിസന്ധി കൂടാതെ ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രതിസന്ധി കണ്ടു അവിടെ കാൽക്കുലേറ്റർ കടന്ന് വരുന്നു റൌത്തർ പൂർണമായും അമൂല്യമായിത്തീരുന്നതിനാൽ കാര്യങ്ങൾ സങ്കീർണമാകുന്നു അങ്ങനെ പറഞ്ഞാൽ ആ തുണിക്കടയിലെ അംഗങ്ങൾക്ക് അപ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടും ഇപ്രകാരമാണ് അത് പരിഹരിക്കപ്പെടുന്നത് ബിൽ ഉണ്ടാക്കുമ്പോൾ റൌത്തർ വിലയിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നു അതിനാൽ അമ്പി ഇരുന്നു നിരവധി കാര്യങ്ങളുടെ കണക്കുകൂട്ടൽ നടത്തുന്നു ഒപ്പം മുരുകൻ ഓരോ മെറ്റീരിയലിന്റെയും വില വായിക്കുന്നു അപ്പോൾ റൌത്തർ പറയുന്നു അത് ആ മെറ്റീരിയലിന്റെ വിലയല്ല അത് മറ്റൊന്നാണ് എല്ലാവരും പെട്ടെന്ന് അവന്റെ ചുറ്റും കൂടി എന്നിട്ട് റൌത്തർ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം മുരുകൻ പറഞ്ഞത് തെറ്റാണ് അത് കടയുടമയുടെ ശ്രദ്ധയിൽ പെടുന്നു അവൻ ചോദിക്കുന്നു എല്ലാ വിലകളും നീ ഓർക്കുന്നുണ്ടോ എന്ന് ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് റൌത്തർ പറയുന്നു തുടർന്ന് കട ഉടമ അവനെ പരീക്ഷിച്ചു ഏറ്റവും വലിയ ടവൽ ഏറ്റവും ചെറിയ ടവൽ സ്റ്റോറിലെ എല്ലാ വസ്തുക്കളുടെയും വില അദ്ദേഹം ചോദിക്കുന്നു അവൻ ഓരോന്നിന്റെ വിലയും കൃത്യമായി പറഞ്ഞു എല്ലാവർക്കും അവനിൽ മതിപ്പുണ്ടായി വീണ്ടും അവർ ഈ വൃദ്ധന്റെ മൂല്യം തിരിച്ചറിയാൻ തുടങ്ങി അവന് ശ്രദ്ധേയമായ ഓർമ്മശക്തി ഉണ്ട് എന്ന വസ്തുതയിലാണ് അവന്റെ മൂല്യം ശരിക്കും വസിക്കുന്നത് അതിനാൽ അവന്റെ ഓർമ്മ കാരണം അവൻ ഇപ്പോഴും വിലപ്പെട്ടവനാണ് എന്ന് റൌത്തറിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ തിരിച്ചറിവ് അത് അവന്റെ അധികാരം തിരികെ നേടാനുള്ള ഇടം നൽകുന്നു വസ്ത്രവ്യാപാരശാലയിൽ അയാൾ പെട്ടെന്ന് തന്റെ ആധിപത്യം വീണ്ടെടുത്തു ആ ഓർമ്മശക്തി ശരിക്കും നിർണായകമാണ് ഷോപ്പുടമയുടെ പ്രയോജനത്തിനായി ചില കാര്യങ്ങൾ പെട്ടെന്ന് വ്യക്തമാക്കാനായി റൌത്തർ ഓർമ്മശക്തി ചൂഷണം ചെയ്യുന്നു അയാൾ കടയുടമയോട് വളരെ സൂക്ഷ്മമായും പരോക്ഷമായും പറയുന്നു തുണിക്കട നടത്തുന്നതിൽ താൻ ശരിക്കും ഉപയോഗപ്രദനാണെന്ന് ഞാൻ അൽപ്പം പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആദ്യ പോയിന്റാണിത് കടയിലെ സഹായികളുടെ സാന്നിധ്യവും അഭാവവും തനിക്കറിയാമെന്ന് അയാൾ കടയുടമയോട് പറയുന്നു കാരണം അവരുടെ ഗന്ധം തനിക്കറിയാമെന്ന് അദ്ദേഹം പറയുന്നു എല്ലാവർക്കും ഒരു പ്രത്യേക ഗന്ധമുണ്ടെന്നും അയാൾ അതിനോട് പൊരുത്തപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു അതിനാൽ ആ മണം ഇല്ലെങ്കിൽ അയാൾക്കറിയാം ആ പ്രത്യേക ഷോപ്പ് അസിസ്റ്റന്റ് കടയിൽ നിന്ന് അകലെയാണ് എന്ന് അവൻ കോലപ്പന്റെ ഉദാഹരണം നൽകുന്നു അവൻ അത് വളരെ പരോക്ഷമായി ചെയ്യുന്നു അദ്ദേഹം പറയുന്നു സർ നിങ്ങൾ വൈദ്യുതി ബിൽ അടച്ചോ കാരണം ഇന്ന് അത് അടയ്ക്കാനുള്ള അവസാന തീയതിയാണ് ഉടനെ കടയുടമ പറയുന്നു കോലപ്പൻ എവിടെയാണ് അവനെ വിളിക്കൂ അവൻ പോയി ബില്ലടയ്ക്കണം എന്നിട്ട് അവൻ പറയുന്നു കോലപ്പൻ അടുത്തില്ലെന്ന് നോക്കൂ താങ്കൾ ഇത് ശ്രദ്ധിച്ചില്ല ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു അതിനാൽ താൻ ഒരു ശക്തമായ സാന്നിധ്യമാണെന്ന് അവൻ പരോക്ഷമായി പറയുന്നു കടയുടെ ഉടമയെക്കാൾ കൂടുതൽ കടയിലെ അകത്തും പുറത്തുമുള്ള സംഭവങ്ങൾ അറിയുന്ന ഒരു സൂപ്പർവൈസറെ പോലെയാണ് അദ്ദേഹം സ്റ്റോറിലെ ഓരോ മെറ്റീരിയലിന്റെയും വില തനിക്കറിയാമെന്നും അയാൾ ഉടമയോട് വ്യക്തമായി പറയുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം മുരുകൻ ഒരു ഉപഭോക്താവിനെ ഒരു നിർദ്ദിഷ്ട തരം വെസ്റ്റി ഒരു നിർദ്ദിഷ്ട അരക്കെട്ട് തുണി ഇല്ലെന്ന് പറഞ്ഞ് എങ്ങനെ പിന്തിരിപ്പിച്ചു വിട്ടു എന്നും വാസ്തവത്തിൽ അവർക്ക് വിൽപനയ്ക്കായി വെസ്റ്റികൾ ഉണ്ടായിരുന്നു മുരുകന് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും അയാൾ കട ഉടമയ്ക്ക് നൽകുന്നു അതിനാൽ ഈ വിവരങ്ങളെല്ലാം ഒന്നിനുപുറകെ ഒന്നായി വരുമ്പോൾ ഒരു ഗണിത പ്രതിഭയായ ഈ മനുഷ്യൻ കടയെക്കുറിച്ചുള്ള തന്റെ അറിവ് അതീവ ശക്തമാണെന്നും അവന്റെ ഓർമ്മയിൽ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെന്നും എല്ലാവരേയും ബോധവാന്മാരാക്കുന്നു അതിനാൽ മുരുകന്റെ തെറ്റ് അവൻ ഒന്നല്ല രണ്ടുതവണ കണ്ടുപിടിക്കുന്നുവെന്ന് നമുക്ക് കാണാനാകുന്നതുപോലെ ഒന്നാമതായി മുരുകൻ ചെയ്ത ആദ്യത്തെ തെറ്റിലേക്ക് തിരിച്ചുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ പ്രത്യേക സന്ദർഭത്തിൽ റൌത്തറിന്റെ മനോഭാവം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആ തുണിയുടെ നിങ്ങൾ പത്ത് മീറ്റർ വിറ്റു എന്ന് അയാൾ പറയുന്നു നിങ്ങൾക്ക് 10 രൂപ നഷ്ടപ്പെട്ടേക്കാം നിങ്ങൾ ഇവിടെ തെരുവിൽ നിന്ന് വരുന്ന എല്ലാവർക്കും അയ്യയുടെ പണം നൽകാൻ ഇരിക്കുകയാണോ അതിനാൽ ഈ സമയത്ത് അയാൾ മുരുകനെ കൈ വിടുന്നത് വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ തനിക്ക് അശ്രദ്ധാലുവായ ഒരു ഷോപ്പ് അസിസ്റ്റന്റ് ഉണ്ടെന്നും ഈ സ്റ്റോറിലെ മെറ്റീരിയലിന്റെ വിലയെക്കുറിച്ച് അറിവില്ലാത്തയാൾ ആണെന്നും അതിനെ കുറിച്ച് ശ്രദ്ധിക്കാത്തയാൾ ആണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മുരുകനെ അയാൾ കടയുടമയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു അതുകൊണ്ട് മുരുകനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രസംഗം അദ്ദേഹം കടയുടമയോട് നടത്തുമ്പോൾ അയാൾ മിക്കവാറും ഉടമയുടെ സാന്നിധ്യത്തിൽ സംസാരിക്കുന്നു തുണിക്കടയുടെ ലാഭം മനസ്സിൽ ഉണ്ടെന്നും അത് ലാഭകരമാണെന്നും അയാൾ ഉടമയോട് പരോക്ഷമായി പറയുന്നു തൽഫലമായി ഉടമ അവനെ ജോലിയിൽ നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നു അവൻ വീണ്ടും മറ്റൊരു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു റൌത്തർ എന്ന ഈ തൊഴിലാളിയുടെ ഈ പ്രത്യേക മനോഭാവം മറ്റൊരു സംഭവത്തെക്കുറിച്ച് മറ്റൊരു തൊഴിലാളിയായ കോലപ്പന്റെ മനോഭാവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ കടയുടമ റൌത്തറിന്റെ വീട് ഭീമമായ തുക നൽകി ജപ്തിയിൽ നിന്നും രക്ഷിക്കുന്നു അയാൾ നിയമപരമായ ഫീസും അടയ്ക്കുന്നു അങ്ങനെ അദ്ദേഹം റൌത്തറിനെ സാമ്പത്തികമായി സഹായിക്കുന്നു പക്ഷേ അതൊന്നും വകവയ്ക്കാതെ റൌത്തർ അടുത്ത ദിവസം തന്നെ ചെട്ടിയാരുടെ കടയിൽ പോയി ജോലി ചെയ്യുന്നു കൂടാതെ കടയുടമ അസ്വസ്ഥനാകുന്നതിനുമുമ്പ് അതിനെക്കുറിച്ച് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് കടയുടമയുടെ സാന്നിധ്യത്തിൽ കോലപ്പൻ ദേഷ്യപെടുന്നു അവൻ ഒരു വിഡ്ഢിയാണെന്ന് അയാൾ പറയുന്നു അവൻ ഒരു ഗണിതശാസ്ത്ര പ്രതിഭയാകാം എന്നാൽ അവൻ ഒരു വിഡ്ഢിയാണ് റൌത്തർ മുരുകനോട് മുതലാളിയുടെ സാന്നിധ്യത്തിൽ ദേഷ്യപ്പെടുമ്പോൾ കടയുടമയുടെ സാന്നിധ്യത്തിൽ ആ ദേഷ്യത്തിന് അതുകൊണ്ട് ഇവിടെ സമാന്തരമുണ്ട് അതിനാൽ തൊഴിലാളികളുടെ മനോഭാവത്തിൽ നമുക്ക് ഇവിടെ സമാന്തരങ്ങൾ കാണാൻ കഴിയും അത് നമ്മോട് എന്താണ് പറയുന്നത് ഈ നിർദ്ദിഷ്ട കഥയിൽ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ സ്റ്റോറിലെ സഹപ്രവർത്തകരുടെ ചെലവിൽ ഉടമയുടെ കണ്ണിൽ നല്ലവർ ആയിരിക്കാൻ ഓരോ തൊഴിലാളിയും ആഗ്രഹിക്കുന്നു അതിനാൽ എല്ലാവർക്കും ഹൃദയത്തിൽ ഉടമയോട് താൽപ്പര്യം ഉള്ളതായി തോന്നുന്നു അല്ലാതെ അവരുടെ സഹപ്രവർത്തകരുടെയോ സഹജോലിക്കാരുടെയോ പ്രശസ്തി അല്ല ഈ നിർദ്ദിഷ്ട കഥയുടെ പശ്ചാത്തലത്തിൽ അത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് റൌത്തർ താൻ ട്രാക്കിൽ തിരിച്ചെത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ മനോഭാവം തന്നെ തിരിച്ചു വരുന്ന വഴി വീണ്ടും നോക്കുക അവന്റെ സ്വരത്തിൽ കളിയാക്കലും പരിഹാസ്യവുമായ പെരുമാറ്റം ഉണ്ട് അത് വളരെ വ്യക്തമാണ് പ്രഭു മുരുകൻ എന്ന ദ്വയാർത്ഥപദത്തിലേക്ക് നോക്കൂ കാരണം അയാൾ മുരുകനെ അവിടെ മുരുക ഭഗവാനുമായി ബന്ധപ്പെടുത്തുന്നു അവൻ പറയുന്നു ഓ മുരുകാ ദൈവമേ നമ്മുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ഉള്ളത് നമ്മുടെ പക്കലില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപഭോക്താക്കളെ സന്തോഷപൂർവ്വം മടക്കി അയക്കുന്നു നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് കച്ചവടത്തിനോ അതോ ദാനധർമ്മത്തിനോ " അതിനാൽ അവിടെ അവൻ തന്റെ സഹപ്രവർത്തകനായ മുരുകനെ ഭഗവാൻ മുരുകനോട് ഉപമിച്ചുകൊണ്ട് പരിഹസിക്കുന്നു എന്നിട്ട് അവൻ പറയുന്നു നിങ്ങൾ ഒരു ദൈവത്തെ പോലെ ആണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ കടയിലെ കാര്യങ്ങളോ വിശദാംശങ്ങളോ നിങ്ങൾക്കറിയില്ല ഈ കടയുടമയ്ക്ക് നിങ്ങൾ നഷ്ടം വരുത്തുന്നു അതിനാൽ അവൻ പറയുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മുടെ പക്കലില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപഭോക്താക്കളെ സന്തോഷപൂർവ്വം മടക്കി അയക്കുന്നു അതിനാൽ അവൻ മുരുകനെ പരിഹസിക്കുന്നു അവൻ അയാളെ കളിയാക്കുന്നു അതിനാൽ റൌത്തറിനുള്ളിൽ മനുഷ്യാത്മാവ് തിരിച്ചെത്തി എന്നാൽ ഈ പ്രത്യേക സംഭവത്തിൽ രസകരം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് വേഷ്ടി സ്റ്റോറിൽ ഉണ്ടെന്ന കാര്യം റൌതർ പരാമർശിക്കാത്തത് മുരുകനും ആ ഉപഭോക്താവും തമ്മിൽ ആ സംഭാഷണം നടക്കുന്നതു കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം നിശബ്ദനായത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാത്തത് നില്ക്കു മുരുക ആ സാധനം കടയിൽ തിരിച്ചെത്തിയതിനാൽ നിനക്ക് അത് വിൽക്കാൻ കഴിയും അവൻ അവിടെ ഇടപെടുന്നില്ല അത് ഒരു വലിയ ചോദ്യമാണ് അന്നേരം എന്തുകൊണ്ടാണ് അദ്ദേഹം നിശബ്ദനായത് അതിനാൽ ആ ചോദ്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഓർമയുടെ ശക്തി തിരിച്ചറിഞ്ഞതിനുശേഷം റൌത്തർ കടയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാം ആ സ്റ്റോറിലെ ബാക്കിയുള്ള സ്റ്റാഫുകളുടെ ഒരു സൂപ്പർവൈസറായി അദ്ദേഹം മാറിയെന്ന് അയാൾ മനസ്സിലാക്കുന്നു അതിനാവശ്യമായ അധികാരവും അറിവും നൈപുണ്യവും അദ്ദേഹത്തിനുണ്ട് അതിനാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് വിശദാംശങ്ങൾക്ക് നല്ല ശ്രദ്ധ കൊടുക്കുന്ന ഓർമ്മശക്തി റൌത്തറിനെ കടയുടെ ആധിപത്യം തിരിച്ചുപിടിക്കാൻ ശരിക്കും സഹായിക്കുന്നു അവൻ ആ നൈപുണ്യം തന്റെ പ്രയോജനത്തിനായി പ്രയോജനപ്പെടുത്തുകയും ഉടമയോട് വളരെ സൂക്ഷ്മമായി പറയുകയും ചെയ്യുന്നു അതായത് അയാൾക്ക് കട ലാഭത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അയാൾ വീണ്ടും കടയുടമയ്ക്ക് വളരെ വിലപ്പെട്ടവനാണ് എന്ന് അതുകൊണ്ട് അയാൾ കടയുടമയെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നോക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പോലെ അത് വൈദ്യുതി ബില്ലായിരുന്നു അദ്ദേഹം പറയുന്നു ഇന്ന് അവസാന ദിവസമാണ് നിങ്ങൾ ബിൽ അടച്ചോ എന്ന് ആ കാര്യത്തിന് രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ട് അത് ഓർമ്മപ്പെടുത്തലിന് രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ട് ഒന്നാമതായി ഇന്ന് അവസാന ദിവസമാണെന്ന വസ്തുത അദ്ദേഹം ഓർക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു അത് ഉടമയ്ക്ക് ഉപയോഗപ്രദമാണ് രണ്ടാമത്തെ കാര്യം അത് മറന്ന് പോയ ഒരു ഷോപ്പ് അസിസ്റ്റന്റിന്റെ അശ്രദ്ധമായ പെരുമാറ്റത്തെയും അത് പിടിച്ചെടുക്കുന്നു കൂടാതെ അയാൾ ജോലിക്ക് ഹാജരാകാത്തതും അതിനാൽ റൌത്തറിന് അവിടെ രണ്ട് നേട്ടങ്ങളുണ്ട് കൂടാതെ കട ഉടമയെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം അവന്റെ ആദായനികുതി അടയ്ക്കുന്നതിനെക്കുറിച്ചാണ് അയാൾ പറയുന്നു അയ്യ ആദായനികുതി അടയ്ക്കാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അതിനാൽ നിങ്ങൾ പോയി നിങ്ങളുടെ ഓഡിറ്ററെ കാണാൻ സമയമായി അതിനാൽ അത് മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് വളരെ നിർണായകമായ ഓർമ്മപ്പെടുത്തൽ കടയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്ന് ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ കടയുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി മൂന്നാമതായി അവൻ അമ്മയ്ക്ക് അംബിയുടെ അമ്മയ്ക്ക് വാങ്ങേണ്ട മരുന്നിനെക്കുറിച്ച് ഉടമയെ ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ ഇത് ഒരു വ്യക്തിപരമായ ഓർമ്മപ്പെടുത്തലാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് കാരണം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അമ്മ ആസ്ത്മ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് അതിനാൽ അവർക്കുള്ള മരുന്നുകൾ വാങ്ങാൻ അവൻ ഉടമയെ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചത് നല്ല കാര്യം എനിക്ക് അത് വാങ്ങിക്കണം ഒടുവിൽ അവൻ ഉടമയുടെ അമ്മയുടെ ചരമവാർഷികം അടുത്തെത്തി എന്നും ഓർമ്മിപ്പിച്ചു അവൻ പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ മുരുകനോട് അവന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ അവൻ പോകുമ്പോൾ പുരോഹിതനെ കണ്ട് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആവശ്യപ്പെടാത്തത് അതിനാൽ ഈ കാര്യങ്ങൾ എല്ലാം കടയുടമയുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ സ്പർശിക്കുന്നു അത് ബിസിനസ്സിനെ സ്പർശിക്കുന്നു അത് വ്യക്തിപരമായ വശത്തെ സ്പർശിക്കുന്നു അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആരോഗ്യ വശത്തെയും സ്പർശിക്കുന്നു പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിനാൽ അദ്ദേഹം ഏകദേശം സ്വയം ഒരു വിജയകരമായ പേഴ്സണൽ മാനേജരായി മാറിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അവൻ സ്വയം ഏറ്റെടുക്കുന്ന വളരെ അമൂല്യമായ ജോലി കൂടാതെ അവൻ അത് വളരെ സുഗമമായി ചെയ്യുന്നു അതിനാൽ ഈ അധികാരമാറ്റം കഥയുടെ ഒരു ഘട്ടത്തിൽ അതിന്റെ അവസാന ഭാഗത്തേക്ക് വളരെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രസക്തമായ ആ ഭാഗം ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നു 'അന്ന് വൈകുന്നേരം റൌതർ ബിൽ ഉണ്ടാക്കുന്ന വിഭാഗത്തിൽ നിന്ന് മാറി അപ്പയുടെ അരികിൽ ഇരുന്നു ' അവൻ പറയുന്നു ഞാൻ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സഹായകരമാകും അയ്യ അദ്ദേഹം പറഞ്ഞു കൂടാതെ അവൻ ഒട്ടും സങ്കോചിക്കാതെ പറഞ്ഞു നിങ്ങൾ ഫാനിന്റെ വേഗത അൽപ്പം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എനിക്കും കുറച്ച് കാറ്റ് ലഭിക്കും അപ്പ ഉചിതമായ ഉത്തരവ് നൽകി അതിനാൽ അവൻ ബിൽ ഉണ്ടാക്കുന്ന വിഭാഗത്തിൽ നിന്ന് മാറി അവൻ ഈ കടയുടെ ഉടമയായ അപ്പയുടെ അരികിൽ വന്ന് ഇരിക്കുകയും ചെയ്യുന്നുവെന്ന് വളരെ വ്യക്തമാണ് അതിനാൽ അവൻ തുണിക്കടയിലെ അധികാര കേന്ദ്രത്തിലേക്ക് കുടിയേറുകയാണ് അവൻ പറയുന്നു ഞാൻ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സഹായകരമാകും കൂടാതെ ഫാനിന്റെ വേഗത വർദ്ധിപ്പിക്കൂ എന്ന് പറയുമ്പോൾ അധികാര കേന്ദ്രത്തിനോട് കൂടുതൽ അടുക്കുന്നതിന്റെ ഗുണം അയാൾക്ക് ലഭിക്കുന്നു അവൻ ഒട്ടും സങ്കോചിക്കാതെ അത് ചെയ്യുന്നു വളരെ രസകരമായി അപ്പാ ഉചിതമായ ഉത്തരം നൽകുന്നു റൌത്തർ എന്താണ് അയാളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്രകാരം അയാൾ അവന് ചെയ്ത കൊടുക്കുന്നു അതിനാൽ കടയിലെ അധികാര കേന്ദ്രത്തിലേക്ക് റൌത്തറിന്റെ ഭാഗത്ത് ഒരു കുടിയേറ്റമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും കൂടാതെ കടയിലെ അധികാരിയോട് അദ്ദേഹം നിർദ്ദേശിക്കുന്നു അത് കടയുടമയാണ് ആ കൃത്രിമത്വം വളരെ സൂക്ഷ്മതയോടെയാണ് ചെയ്യുന്നതെങ്കിലും അത് കൃത്രിമം ആണ് ചില കാര്യങ്ങളിൽ റൌത്തർ വളരെ കൌശലക്കാരനാണെന്ന് ഇത് നമ്മോട് പറയുന്നു അയാൾ ഒരു സാമ്പത്തിക കുഴപ്പക്കാരനാകാം പക്ഷേ ചില കാര്യങ്ങളിൽ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ അവൻ മിടുക്കനാണ് അതിനാൽ ആ മേഖലയിൽ അവൻ ശരിക്കും വളരെ മിടുക്കനാണ് റൌത്തറിന് തന്റെ ഇടം തിരികെ ലഭിക്കുമ്പോൾ അധികാരം പുനഃസ്ഥാപിക്കപ്പെടും അവൻ ഒട്ടും സങ്കോചിക്കാതെ അത് ചെയ്യുന്നു ആ വാചകം വളരെ രസകരമാണ് കാരണം അവന്റെ ഓർമ്മ വളരെ ഭയങ്കരമാണെന്ന് അയാൾ അറിഞ്ഞയുടനെ അവൻ വളരെ വേഗത്തിൽ അധികാര ശ്രേണിയിൽ കയറ്റുകയും അവന് തന്റെ സ്ഥാനം തിരികെ നൽകുന്നു ഈ കഥയുടെ അവസാന വരികൾ ഇതാണ് ഒരിക്കൽ അവൻ എല്ലാവർക്കും എല്ലാ നിർദ്ദേശങ്ങളും നൽകിയപ്പോൾ അവന് തന്റെ വീട് തിരികെ ലഭിക്കാൻ സഹായിക്കുന്ന കടയുടമയേയും ഗോമതി എന്ന പെൺകുട്ടിയേയും വിട്ട് കടയിൽ നിന്ന് പുറത്തുപോകുന്നു അവൾ ചോദിക്കുന്നു നിങ്ങൾ ഇനി ഒരിക്കലും ബില്ലുകൾ അടിക്കില്ലേ താത്ത അദ്ദേഹം പറയുന്നു "ഇബ്രാഹിം ഹസ്സൻ റൌത്തർ ഇനി വെറും കണക്കുകൂട്ടുന്ന യന്ത്രമല്ല അവൻ ഇപ്പോൾ മാനേജരാണ് അത് ദൈവഹിതമാണ് റൌത്തർ മറുപടി പറഞ്ഞു റൌത്തറിന്റെ ഈ പൂർണ്ണനാമത്തെക്കുറിച്ച് നമുക്ക് ആദ്യമായാണ് ഒരു പരാമർശം ലഭിക്കുന്നതെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ് അത് ഇബ്രാഹിം ഹസ്സൻ റൌത്തർ എന്നാണ് അവന്റെ ജീവിതത്തിൽ അയാൾക്ക് ഒരു അതുല്യമായ ഐഡന്റിറ്റി തിരിച്ചുകിട്ടിയതുപോലെ എല്ലാവരുടെയും പ്രയോജനത്തിനായി അത് പറയുവാൻ അവനെ പ്രേരിപ്പിക്കുന്നു അവൻ ഇനി കണക്കുകൂട്ടുന്ന യന്ത്രമല്ല അവൻ ഇനി ഒരു കണക്കു കൂട്ടുന്ന മനുഷ്യ ഉപകരണമല്ല അവൻ മാനേജരായി അത് ദൈവഹിതമാണെന്ന് അവൻ പറയുന്നു അതിനാൽ ഇത് കഥയുടെ അവസാനത്തിൽ വളരെ മികച്ച സ്പർശനവും ട്വിസ്റ്റും ആണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ മെക്കാനിക്കൽ മനുഷ്യൻ ശക്തനായ ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു അത് ഈ വൃദ്ധന് ഒരു വലിയ നേട്ടമാണ് അതിനാൽ അവൻ ബുദ്ധിപരമായ യുദ്ധത്തിൽ വിജയിച്ചു അതിനാൽ റൌത്തർ പറഞ്ഞ ഒരു കണക്കുകൂട്ടൽ യന്ത്രം എന്ന ഈ ആശയം വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു ജാലകം നൽകുന്നു അത് ഒരു യാന്ത്രികം പോലെയായിരുന്നു കാരണം എല്ലാവരും അവനെ ഗണിതം മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത് മറ്റൊന്നുമല്ല അതിനാൽ ആ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹം വിലപ്പെട്ടത് അതിനാൽ യന്ത്രം യന്ത്രത്തെക്കുറിച്ചുള്ള പരാമർശം കേവലം കൂട്ടിച്ചേർക്കൽ യന്ത്രം എന്ന നിലയിൽ അവൻ മെഷീനുകളെ അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നതെന്ന് നമ്മോട് പറയുന്നു അവയ്ക്ക് സ്വയം തലച്ചോറോ സ്വത്വമോ ഇല്ലാത്തതുപോലെ അതിനാൽ രസകരമായ ആ വാചകം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് യന്ത്രങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഈ മത്സരത്തിൽ മനുഷ്യർ ശ്രേഷ്ഠരാണ് കാരണം അവർ യാന്ത്രികമായി ഒന്നും ചെയ്യുന്നില്ല മറ്റ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് വ്യക്തമായും ഈ നിർദ്ദിഷ്ട കഥയിലെ യന്ത്രവുമായുള്ള യുദ്ധത്തിൽ മനുഷ്യാത്മാവ് വിജയിക്കുന്നു യന്ത്രങ്ങൾ ചില അർത്ഥത്തിൽ തരംതാഴ്ത്തപ്പെടുന്നു കാരണം ഒരു മെറ്റാഫോറിക് അർത്ഥത്തിൽ മനുഷ്യൻ മെഷീനിന് ഒരു പടി മുകളിൽ നിൽക്കുന്നു ഈ പ്രഭാഷണം ശ്രദ്ധിച്ചതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണും